ബയോ റിയാക്ടറുകളെക്കുറിച്ചുള്ള NPTEL ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സായ പ്രഭാഷണ നമ്പർ 11 ലേക്ക് സ്വാഗതം അവസാന പ്രഭാഷണത്തിൽ നമ്മൾ ഒരു പ്രോബ്ലം നൽകിയിരുന്നു പ്രാക്ടീസ് പ്രോബ്ലം 3 ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നമുക്ക് അത് പരിഹരിക്കാം ഒരു ബാച്ച് ബയോ റിയാക്ടറിൽ ഇനോകുലെഷനു ശേഷമുള്ള സാന്ദ്രത ലിറ്ററിന് 0 5 ഗ്രാം ആയിരുന്നു

ഈ സാഹചര്യങ്ങളിൽ ഈ ജീവിയുടെ നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് 0

അതിനാൽ നമുക്ക് സൊല്യൂഷൻ നോക്കാം ക്ലോസ് എൻഡഡ് പ്രോബ്ലെംസ് പരിഹരിക്കുന്നതിനായി അതേ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും ബാച്ച് വളർച്ചയിൽ ലിറ്ററിന് 4 ഗ്രാം എത്താൻ ആവശ്യമായ സമയമാണ് ഇവിടെ ഒരു ഭാഗം അറിയപ്പെടുന്നതോ നൽകിയതോ ആയവ ഇനോകുലെഷനു തൊട്ടുപിന്നാലെ കോശങ്ങളുടെ സാന്ദ്രത ലിറ്ററിന് 0 5 ഗ്രാം ആണ് അതിനാൽ അത് x നോട്ട് ആയി കണക്കാക്കാം ലാഗ് ഫേസിൽ കോശങ്ങളുടെ സാന്ദ്രതയിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് നമ്മൾ അനുമാനിക്കുന്നു അതിനാൽ x നോട്ട് അത് ലോഗ് ഫേസിന്റെ തുടക്കത്തിലെ കോശങ്ങളുടെ സാന്ദ്രതയും ലിറ്ററിന് 0 5 ഗ്രാം ആയി എടുക്കുന്നു ലോഗ് ഫേസിലെ നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് 0 5 മണിക്കൂർ വിപരീതമായി നൽകിയിരിക്കുന്നു അത് നമ്മൾ സ്ഥിരമായി എടുക്കുന്നു ലാഗ് ഫേസ് 20 മിനിറ്റാണ് അത് t zero ആണ് അവ അറിയപ്പെടുന്ന കാര്യങ്ങളാണ് അതിനാൽ ആവശ്യമുള്ളതും അറിയപ്പെടുന്നതും നൽകുന്നതും നമ്മൾ കണ്ടു ഇപ്പോൾ അറിയപ്പെടുന്നവയുമായി ആവശ്യമുള്ളത് എങ്ങനെ ബന്ധിപ്പിക്കും മുമ്പത്തെ പ്രഭാഷണത്തിലെ ബാച്ച് വളർച്ചയിലെ കോശങ്ങളുടെ സാന്ദ്രതയും സമയവും സംബന്ധിച്ച സമവാക്യം നമ്മൾ ഇതിനകം നേടിയിട്ടുണ്ട് സമവാക്യം ഇത് 1 ബൈ mu ആയിരുന്നു ln ഓഫ് x ബൈ x നോട്ട് പ്ലസ് t സീറോ സമയത്തിന് തുല്യമാണ് അതിനാൽ നമുക്ക് ഇവിടെ സമയം ആവശ്യമാണ് 1ln xx0t0t അറിയപ്പെടുന്ന മൂല്യങ്ങൾ നമ്മൾ മാറ്റി എഴുതോകയാണന്കിൽ നമുക്ക് 1 മുതൽ 0 5 mu വരെ ലഭിക്കും mu സ്ഥിരമായി 0 5 മണിക്കൂർ ഇൻവേഴ്സ്സാണ് ln 4 ബൈ 0 5 വരെ പ്ലസ് T നോട്ട് 20 മിനിറ്റാണ് നമ്മുടെ നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് മണിക്കൂർ ഇൻവെർസാണ് അതിനാൽ നമ്മൾ ഒരു സ്ഥിരമായ യൂണിറ്റുള്ള അടിസ്ഥാന സിസ്റ്റത്തിൽ പ്രവർത്തിക്കേണ്ടതുണ്ട് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ നിബന്ധനകളുടെ ഓരോ യൂണിറ്റുകളും തുല്യമായിരിക്കണം നമ്മൾ അത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ 20 മിനിറ്റ് മണിക്കൂറായി പരിവർത്തനം ചെയ്യേണ്ടതുണ്ട് അതിനാൽ 20 മിനിറ്റിനെ 60 കൊണ്ട് ഹരിക്കണം 1 ബൈ 3 മണിക്കൂർ അപ്പോൾ അതാണ് സമയം യൂണിറ്റിലെ സ്ഥിരതയ്ക്കായി നമ്മൾ പരിശോധിച്ചു ഓരോ പദത്തിനും ഒരേ രീതിയിലുള്ള യൂണിറ്റുകളും 20 ഹരിക്കണം 60 ന്റെ ആവശ്യകതയും നമ്മൾ കണ്ടു ഒരു സമവാക്യത്തിലെ ഓരോ പദത്തിന്റെയും യൂണിറ്റുകൾ പരിശോധിച്ച് അത് ഒന്നുതന്നെയാണെന്ന് ഉറപ്പാക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് ഈ ഇടത് വശത്ത് കണക്കാക്കിയാൽ നമുക്ക് t 4 49 മണിക്കൂർ അല്ലെങ്കിൽ 269 3 മിനിറ്റ് തുല്യമാകും അതിനാൽ ഇത് ഒരു ഭാഗമാണ് നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് 0

5 മണിക്കൂർ ഇൻവേഴ്സായിരിക്കുമ്പോൾ ലിറ്ററിന് 0 5 ഗ്രാം എന്ന സാന്ദ്രതയോടെ ആരംഭിച്ച് ലിറ്ററിന് 4 ഗ്രാം എന്ന സാന്ദ്രതയിലെത്താൻ ആവശ്യമായ സമയം Part B ക്ക് എന്താണ് വേണ്ടത് ലോഗ് ഫേസിൽ കോശങ്ങളുടെ സാന്ദ്രത ഇരട്ടിയാകാനുള്ള സമയം എന്താണ് അറിയുന്നത് അല്ലെങ്കിൽ നൽകിയത് ഇത് നമ്മുടെ സമവാക്യം പ്രകാരം എഴുതിയാൽ x രണ്ട് ഇരട്ടി x നൊട്ടിനു തുല്യമായിരിക്കും നിർദ്ദിഷ്ട വളർച്ചാ നിരക്ക് 0 5 മണിക്കൂർ ഇൻവേഴ്സാണ് നൽകിയിരിക്കുന്നവയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം നമ്മൾ ലോഗ് ഫേസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനാൽ കാലതാമസ സമയം ഇവിടെ ശരിക്കും അപ്രസക്തമാണ് അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല

അതിനാൽ നമ്മൾ ഇവിടെ ലോഗ് ഫേസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അറിയപ്പെടുന്ന വേരിയബിളുകൾ 1 mu എന്നത് 0 5 ആണെങ്കിൽ ഇവിടെ x ന്റെ ആവശ്യകത 2 x നോട്ട് x നോട്ട് x നോട്ടിനെ ഒഴിവാക്കി യാൽ ഇത് ln 2 ആണ് അതിനാൽ ln 2 by 0 5 t ന് തുല്യമാണ് ln 2 എന്നത് 0 693 ആണ് 1 by 0 5 ln 2 0 693 ബൈ mu 693 എന്നത് ഓർമിക്കാൻ ഇത് ഒരു നല്ല സംഖ്യയാണ് ഇത് സാധാരണയായി ഇരട്ടിയാവാൻ എടുക്കുന്ന സമയമാണ് അതിനാൽ അത് 1 39 മണിക്കൂറിന് തുല്യമായിരിക്കും 1ln xx0t 10 5ln 2x0x0t 10 5ln 2t 10 5 0 39 hours ഇത് നേരായ പരിഹാരമായിരുന്നു നിങ്ങളിൽ പലരും ഇത് നേടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പരിശീലനത്തിലൂടെ നമ്മൾ കൂടുതൽ മെച്ചപ്പെടും ഈ പ്രഭാഷണം നമ്മൾ അവസാനിപ്പിക്കുമെന്നു കരുതുന്നു ഇതൊരു ഹ്രസ്വ പ്രഭാഷണമാണ് പ്രശ്നത്തിന്റെ പരിഹാരമാണ് നോക്കുന്നത് അടുത്ത പ്രഭാഷണം ആരംഭിക്കുമ്പോൾ നമ്മൾ മൊഡ്യൂൾ 3 മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ കാണാം